ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബിൽറ്റ് എൻവയോൺമെന്റ് പ്രൊഫഷനുകളെക്കുറിച്ചും ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനെക്കുറിച്ചും അതിന്റെ പ്രതികരണത്തെക്കുറിച്ചും സംസാരിക്കാൻ പോകുന്നു സുനാമി റിക്കവറി വരുവോളം സന്നദ്ധ സംഘടനകളുടെ പേരിലുള്ള ഏതെങ്കിലും വികസന ഏജൻസികൾ വഴിയോ ഏതെങ്കിലും പ്രാദേശിക എൻജിഒകൾ വഴിയോ ധാരാളം പ്രൊഫഷണലുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനാൽ പ്രൊഫഷണൽ യുവാക്കളിൽ പലരും വ്യക്തികളോ ഗ്രൂപ്പുകളോ പോലും ഒരു ദുരന്തത്തിന്റെ ഇമ്മീഡിയറ് ഇമ്പാക്റ്റിൽ ഉൾപ്പെടാൻ ശ്രമിക്കുന്നു അവർ ഇടപഴകാനും ഏതെങ്കിലും തരത്തിലുള്ള സഹായത്തിന് സംഭാവന നൽകാനും ശ്രമിക്കുന്നു എന്നാൽ പ്രത്യേകിച്ച് ബിൽറ്റ് എൻവയോണ്മെന്റിൽ നിന്ന് നമ്മൾ ബിൽറ്റ് എൻവയോണ്മെന്റ് വീക്ഷണകോണിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നതിനാൽ ആ വലിയ കുടയ്ക്കുള്ളിൽ വിവിധ വിഭാഗങ്ങളുണ്ട് എന്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ ദേവനംപട്ടണം ഗ്രാമത്തിൽ ആയിരുന്നപ്പോൾ ഏതാനും മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനിടയിൽ ചെറിയ മത്സ്യത്തൊഴിലാളി ഹാംലെറ്റുകളിൽ അതിന്റെ പുനർനിർമ്മാണത്തിൽ നിരവധി ദന്തഡോക്ടർമാർ ഉൾപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചില എൻജിഒകളുമായി ഏകോപിപ്പിക്കുകയായിരുന്നു അതിനർത്ഥം അദ്ദേഹത്തിന്റെ മെഡിക്കൽ പ്രൊഫഷനല്ലാത്ത ഒരു മെഡിക്കൽ സ്ഥാപനം പോലും അല്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്ങനെയെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമോ ഒരു വ്യത്യസ്ത തൊഴിൽ ഷെൽട്ടറിലേക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നത് ആവേശകരമാണ് മറ്റൊരു വശത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രസക്തമായ പ്രൊഫഷനുകൾ ചർച്ചകളിൽ ഇല്ലെന്നും പ്രസക്തമായ പ്രക്രിയകൾ മേശപ്പുറത്ത് ഇല്ലെന്നും ഞാൻ കാണേണ്ടതുണ്ട് അതിനാൽ ആ രീതിയിൽ ഒരു എഞ്ചിനീയറുടെ റോൾ എന്താണ് ഒരു ആർക്കിടെക്റ്റിന്റെ റോൾ എന്താണ് ഒരു മൂല്യനിർണ്ണയക്കാരന്റെ റോൾ എന്താണ് എന്നിങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വിവിധ പ്രൊഫഷനുകളുടെ ഒരു നല്ല ഓവർലാപ്പ് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇവയെല്ലാം വരുന്നു മികച്ച രീതിയിൽ വീണ്ടെടുക്കുന്നതിന് സംഭാവന നൽകാൻ പ്രൊഫഷണൽ വ്യക്തികൾ ഒത്തുചേരുന്നു അതിനാൽ ഈ പദപ്രയോഗം മനസിലാക്കാനും ഓരോ പ്രൊഫഷനിലെയും വിവിധ വിഭാഗങ്ങളും റോളുകളും ഉത്തരവാദിത്തങ്ങളും തരംതിരിക്കാനും അവയ്ക്ക് ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനും ബിൽറ്റ് എൻവയോണ്മെന്റ് പരിശീലനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും എങ്ങനെ സഹായിക്കാനാകും കോർപ്പറേറ്റുകൾക്ക് ഒരു വഴികാട്ടിയുണ്ട് മാനുഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ എൻജിഒകൾക്കും ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ മാക്സ് ലോക്ക് സെന്റർ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് അവിടെ ഞാൻ അക്കാലത്ത് ഡോക്ടറൽ ഗവേഷണം നടത്തി എന്റെ സൂപ്പർവൈസർ ടോണി ലോയ്ഡ് ജോൺസും അദ്ദേഹത്തിന്റെ ടീമും മാനുഷിക ഏജൻസികൾക്കായി ഒരു ഗൈഡ്ബുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ആർക്ക് എപ്പോൾ എന്താണ് റോൾ അതിനാൽ നിങ്ങൾ നോക്കുന്ന റിപ്പോർട്ടാണിത് ദുരന്തസാധ്യത കുറയ്ക്കുന്നതിലും പ്രതികരണത്തിലുമുള്ള ബിൽറ്റ് എൻവയോണ്മെന്റ് പ്രൊഫഷനുകൾ കൂടാതെ ഈ ഗൈഡ് നിരവധി വെല്ലുവിളികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് വ്യത്യസ്തമായ ബിൽറ്റ് എൻവയോണ്മെന്റ് പ്രൊഫഷനുകളും സങ്കീർണ്ണതയും ഇത് അവതരിപ്പിക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരു ആർക്കിടെക്റ്റിനെ ഒരു പ്ലാനറെ കാണാൻ കഴിയും ഒരു പ്ലാനറായി മാറിയ ആർക്കിടെക്ടിൻറെയും ഒരു പ്ലാനറായി മാറിയ എൻജിനീയറിന്റെയും പ്ലാനർ എന്ന നിലയിലുള്ള പ്രീ ക്വാളിഫികേഷൻ അതിനാൽ മനസ്സിലാക്കാനുള്ള വളരെ സങ്കീർണ്ണമായ ഒരു സാഹചര്യം അവിടെയാണ് പ്രൊഫഷണലുകളുടെ സംഭാവനയും സ്പേഷ്യൽ സ്കെയിലിൽ അതിന്റെ അളവും മനസ്സിലാക്കുന്നതിനുള്ള വളരെ സങ്കീർണ്ണമായ സാഹചര്യം ഓരോ തൊഴിലും എന്താണ് ചെയ്യുന്നതെന്നും അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൃത്യമായ ധാരണയുടെ അഭാവം അവിടെയാണ് നമ്മുടെ ബിൽട് എൻവയോണ്മെന്റ് വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് ആർക്കിടെക്സ് പരിശീലനത്തിൽ സർവേയിംഗിലും ലെവലിംഗിലും നമുക്ക് പരിശീലനം ഉണ്ട് എന്നാൽ നിങ്ങളുടെ ദൈനംദിന പരിശീലനത്തിലും പ്രത്യേകിച്ച് ദുരന്തനിവാരണ പരിപാടികളിലും ഇത് എത്രത്തോളം ഉപയോഗപ്രദമാണ് സർവേയിംഗിൽ നിന്നുള്ള അറിവ് നിങ്ങൾക്ക് എങ്ങനെ എടുത്തുകളയാം ആർക്കിടെക്ച്ചർ പരിശീലനത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്താണ് പരിമിതി യഥാർത്ഥത്തിൽ തന്റെ യോഗ്യത പൂർത്തിയാക്കിയ സർവേയർ എന്താണ് അവന്റെ റോൾ എന്താണ് ഏറ്റവും ചെറിയ സംഭാവനയുള്ള ഒരു വ്യക്തി അവന്റെ പങ്ക് എന്താണ് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം ഇതൊരു സങ്കീർണ്ണതയായിരുന്നു എല്ലാം ഇന്റർ ഡിസിപ്ലിനറി ആയതിനാൽ എപ്പോഴും ഓവർലാപ്പ് ഉണ്ട് ആർക്കിടെക്ച്ചറിന് പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമുണ്ട് ഒരു അർബൻ ഡിസൈൻ ഉണ്ട് ഒരു വശത്ത് നിങ്ങൾ സ്ട്രക്ച്ചറൽ എഞ്ചിനീയറിംഗിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു വശത്ത് നിങ്ങൾ സർവേയിംഗിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ വൈദഗ്ധ്യത്തിന്റെ ഈ പരസ്പരാശ്രിതത്വവും വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള പരിശീലകരുടെ ടീമുകളെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും ഉണ്ട് വിദഗ്ധരുടെ വിവിധ ടീമുകളുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ് കൂടാതെ വിവരങ്ങളുടെ അഭാവവും വ്യക്തിഗത അല്ലെങ്കിൽ ടീം വർക്ക് അടിസ്ഥാനത്തിൽ ബിൽറ്റ് എൻവയോൺമെന്റ് പ്രാക്ടീഷണർമാരെ എങ്ങനെ നിയമിക്കാം ഒരു പ്രത്യേക വ്യക്തിക്ക് പ്രസക്തമായ വൈദഗ്ധ്യവും അനുഭവപരിചയവും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ വാസ്തവത്തിൽ നിങ്ങളുടെ പക്കൽ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് ഉള്ളതെന്ന് നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്യാനോ ഹാബിറ്റാറ്റ് മാപ്പിംഗ് ജോലികൾ ചെയ്യാനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസിയെ നിയമിക്കുകയോ ആർക്കിടെക്റ്റുകളുടെയോ പ്ലാനർമാരുടെയോ ഒരു ടീം രൂപീകരിക്കേണ്ടിയോ വരുമ്പോൾ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള പ്രസക്തമായ വൈദഗ്ദ്ധ്യം ഉണ്ട് അത് നോക്കേണ്ടതുണ്ട് ഏത് തരത്തിലുള്ള പ്രസക്തമായ എക്സ്പരിയൻസ് ആണ് ഒരാൾക്കുള്ളത് അതും നോക്കേണ്ടതുണ്ട് യുണൈറ്റഡ് നേഷൻസ് യുഎൻഡിപി അല്ലെങ്കിൽ ആഗാ ഖാൻ ഫൌണ്ടേഷൻ അല്ലെങ്കിൽ മാനുഷിക ഷെൽട്ടർ പ്രോഗ്രാമുകളിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഏജൻസികളുടെ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് നമ്മൾ എപ്പോഴെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് മാനുഷിക മേഖലയിൽ ജോലി ചെയ്ത പരിചയമുണ്ടെങ്കിൽ എത്ര വർഷം എന്ന് അവർ വിവരിക്കാറുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് പ്രോജക്ട് മാനേജ്മെന്റ് ഉണ്ട് നിങ്ങൾ ഒരു ആർക്കിടെക്റ്റ് ആണോ നിങ്ങൾ ഒരു ഡോക്ടറേറ്റ് കാൻഡിഡേറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സമ്പന്നമായ യോഗ്യതയുണ്ടോ എന്നൊന്നും പരിഗണിക്കാതെ നിങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ഉണ്ടോ എന്ന് അതിനർത്ഥം ഡിസാസ്റ്റർ കോണ്ടെക്സ്റ്റിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് പ്രൊഫഷണലിനെ മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്നാണ് എത്ര സമയം അവർ ഇടപഴകേണ്ടി വരും എന്നതിനെക്കുറിച്ചും അനുബന്ധ ചെലവിനെക്കുറിച്ചും അനിശ്ചിതത്വം ആണ് നിങ്ങൾക്ക് ഒരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ നിയോഗിക്കണമെങ്കിൽ ഒരാൾക്ക് എത്രനേരം പങ്കെടുക്കാം ഇത് റീകൺസ്ട്രക്ക്ഷൻ പ്രോസസ്സിൽ ഉടനീളം ആണോ റിലീഫ് സ്റ്റേജിൽ നിന്ന് പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി അല്ലെങ്കിൽ മുഴുവൻ റീകൺസ്ട്രക്ക്ഷൻ സ്റ്റേജിലേക്കോ ഏത് ഘട്ടത്തിലാണ് ഒരാൾ ഏർപ്പെടേണ്ടത് ഏത് തൊഴിലിൽ ഏർപ്പെടേണ്ടത് ഏത് ഘട്ടത്തിലാണ് ആ പ്രത്യേക തൊഴിലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റുകൾ എവിടെയാണ് എവിടെയാണ് ട്രാവൽ ടുഗെതർ പാർട്ണർഷിപ് പൊസിഷൻസ് ഈ വ്യത്യസ്ത തൊഴിലുകൾ ഓരോ സ്ഥലത്തും പേരിലും അവ വാഗ്ദാനം ചെയ്യുന്ന വൈദഗ്ധ്യത്തിന്റെ പ്രത്യേക മേഖലകളിലും കാര്യമായ വ്യത്യാസമുണ്ടാകുമെന്നതും പ്രൊഫഷണൽ പദപ്രയോഗങ്ങളിലൂടെ നിരവധി തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നു ഇവിടെ ഈ പ്രത്യേക ഗൈഡ് പ്രവർത്തനത്തിനും ബിൽറ്റ് എൻവയോൺമെന്റ് പ്രാക്ടീസിനുമുള്ള ഹ്യോഗോ ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നു പ്രവർത്തനത്തിനുള്ള ഹ്യോഗോ ഫ്രെയിംവർക്കിന് കീഴിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന മാർഗനിർദേശ തത്വങ്ങളെക്കുറിച്ചും ബിൽറ്റ് എൻവയോൺമെന്റ് പരിശീലനത്തിന് അത് എങ്ങനെ പ്രസക്തമാണ് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരാൾ നോക്കേണ്ടതെന്നും ഇത് പറയുന്നു നടപ്പിലാക്കുന്നതിനുള്ള ശക്തമായ സ്ഥാപനപരമായ അടിത്തറയുള്ള ദേശീയവും പ്രാദേശികവുമായ മുൻഗണനയാണ് ദുരന്തസാധ്യത കുറയ്ക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യ പോയിന്റ് സംസാരിക്കുന്നത് എന്റെ സ്വന്തം അനുഭവം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗുജറാത്തിലെ ദുരന്ത നിവാരണത്തെക്കുറിച്ച് ഞാൻ ആർക്കിടെക്ച്ചർ തീസിസ് നടത്തുമ്പോൾ എന്റെ പല സുഹൃത്തുക്കളും ഉപദേശിച്ചു നിങ്ങൾ എന്തിനാണ് ആ പ്രോജക്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് ആ തൊഴിലിൽ ശരിക്കും ഭാവിയുണ്ടോ കാരണം നിങ്ങൾക്ക് ഒരു ദുരന്തത്തിനായി കാത്തിരിക്കേണ്ടി വന്നില്ലെങ്കിൽ ഈ ഫീൽഡിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇത്രയും വലിയ ഗേറ്റ്വേകളും വ്യത്യസ്ത വിഭാഗങ്ങളും ഉണ്ടോ എന്നതിനെക്കുറിച്ച് എന്റെ കാലത്ത് കൂടുതൽ അവബോധം ഇല്ലാത്തതിനാൽ പിന്നീട് സുനാമിക്ക് ശേഷം പല സംസ്ഥാന സർക്കാരുകളും ദേശീയ സർക്കാരുകളും അന്തർദേശീയ മേഖലകളും പ്രാദേശിക മുൻഗണനയ്ക്കൊപ്പം ദേശീയ മുൻഗണനയും നൽകണമെന്ന് അവർ ഊന്നിപ്പറഞ്ഞു ശക്തമായ ഒരു സ്ഥാപന ശൃംഖല ഉണ്ടായിരിക്കണം അവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് രൂപീകരിച്ചത് തുടർന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മന്റ് അതോറിറ്റി കാണാം നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മന്റ് ഉണ്ട് അതിനാൽ നാഷണൽ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെ ഉണ്ട് കൂടാതെ ലോക്കൽ ലെവൽ അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഹോൾ ഹയരാർക്കി നിങ്ങൾക്കുണ്ട് ഇവയെല്ലാം ഭൂവിനിയോഗ ആസൂത്രണം രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റൽ ലെവെലിലും ഇന്സ്ടിട്യൂഷനൽ ലെവെലിലും പ്രവർത്തിക്കേണ്ടിവരുമ്പോൾ ഭൂവിനിയോഗ ആസൂത്രണം ബിൽഡിംഗ് കോഡുകൾ അപകടസാധ്യത കുറയ്ക്കാൻ കഴിയുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ രൂപപ്പെടുത്താൻ കഴിയും കൂടാതെ ഉചിതമായ സോണിംഗ് കെട്ടിട ചട്ടങ്ങൾ നിലവിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ശരിയായി നടപ്പിലാക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ സുനാമി വരെ 1991 ൽ രൂപീകരിച്ച തീരദേശ നിയന്ത്രണ മേഖലയുടെ പ്രാധാന്യം ആരും തിരിച്ചറിഞ്ഞില്ല അത് ഇപ്പോഴും 19 തവണ പരിഷ്കരിച്ചിട്ടുണ്ട് എന്നിട്ടും ആളുകൾ കടൽത്തീരത്ത് പണിയാൻ തുടങ്ങിയതിന് കാര്യമായ മനോവിചാരം ഇല്ല അവിടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് അതിനാൽ ഈ പോളിസി ലെവൽ ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിന്റെ പ്രാധാന്യവും ലോക്കൽ ലെവൽ ഇമ്പ്ലിമെന്റേഷൻ സ്ട്രാറ്റജികളിലേക്ക് അത് എങ്ങനെ കൊണ്ടുപോകാമെന്നും ഒരാൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് കെട്ടിട സുരക്ഷയെക്കുറിച്ചും ആശുപത്രികൾ പവർ സ്റ്റേഷനുകൾ തുടങ്ങിയ നിർണായക സൌകര്യങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് പ്രാക്ടീഷണർമാരുടെ വൈദഗ്ധ്യത്തിൽ നിന്ന് നേരിട്ട് എടുക്കുന്നു അതിനാൽ ഒരു ദുരന്തത്തിന്റെ പെട്ടെന്നുള്ള ആഘാതത്തിൽ നിങ്ങൾക്ക് ആളുകളെ എങ്ങനെ സംരക്ഷിക്കാം ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ എവിടെ സ്ഥാപിക്കാം ശുചിത്വ സൌകര്യങ്ങൾ എങ്ങനെ ഇവയെല്ലാം നോക്കേണ്ടതുണ്ട് പെട്ടെന്നുള്ള പ്രതികരണം സുഗമമാക്കാം അതിനാൽ ഇതെല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട് ദുരന്തസാധ്യതകൾ തിരിച്ചറിയുകയും വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും മുൻകൂർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക അതിനാൽ ഒരാൾ റിസ്ക് അസസ്മെന്റ് പ്രക്രിയയിലേക്ക് നോക്കേണ്ടതുണ്ട് മുഴുവൻ കോഴ്സിലും നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പല പ്രഭാഷണങ്ങളും ചിട്ടയായ ഹസാഡ് മാപ്പിംഗിനെയും റിസ്ക് ഇൻഫർമേഷൻ കളക്ഷനുകളെ ആശ്രയിക്കുന്ന റിസ്ക് അസ്സെസ്സ്മെന്റ് പ്രോസസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അപകടസാധ്യതയുടെ ചരിത്ര പാളികൾ എങ്ങനെയെന്ന് അതെ ഇത് ഒരു അപകടസാധ്യതയുള്ള പ്രദേശമാണെന്നും വെള്ളപ്പൊക്ക ഭൂപടത്തെക്കുറിച്ചും സംസാരിക്കുന്നു തുർക്കിയിൽ സർവേയർമാർ രാജ്യത്തുടനീളമുള്ള കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പട്ടികപ്പെടുത്തുകയും ലഭ്യമാക്കുകയും ചെയ്യുന്നു അതിനാൽ അവർ ഒരു കാറ്റലോഗ് ഉണ്ടാക്കുന്നു പ്രദേശത്തിന്റെ ഏത് ഭാഗമാണ് ഭൂകമ്പം ബാധിച്ചത് കാരണം ആ പ്രദേശത്ത് ഒരു തകരാർ കടന്നുപോകുന്നു അത്തരം കാറ്റലോഗുകൾ ദുരന്ത നിവാരണ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നതിന് ഏതെങ്കിലും പ്രാദേശിക അധികാരികൾക്ക് യഥാർത്ഥത്തിൽ അർത്ഥവത്തായ പരിഹാരങ്ങൾ നൽകാൻ കഴിയും അല്ലെങ്കിൽ സ്കൂളുകളും വീടുകളും ജോലിസ്ഥലങ്ങളും ടാർഗെറ്റുചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാനും കഴിയും എല്ലാ തലങ്ങളിലും സുരക്ഷിതത്വത്തിന്റെയും പ്രതിരോധശേഷിയുടെയും സംസ്കാരം കെട്ടിപ്പടുക്കാൻ അറിവ് നവീകരണം വിദ്യാഭ്യാസം എന്നിവ ഉപയോഗിക്കുക എന്നതാണ് മൂന്നാമത്തെ തത്വം അതിനാൽ എഞ്ചിനീയർമാർ ആർക്കിടെക്റ്റുകൾ സർവേയർമാർ എന്നിവരുടെ മേഖലാ പരിശീലനത്തെക്കുറിച്ചും അവരെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയാവുന്ന മേസൺമാരെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അവിടെയാണ് എൻജിഒകൾ നൈപുണ്യ വികസന പരിപാടികൾ സംയോജിപ്പിക്കുന്നത് ഹുന്നാർശാലയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് അവർ ഗ്രാമീണ സമൂഹങ്ങളെ പരിശീലിപ്പിക്കുന്നത് അതിലൂടെ അവർക്ക് നൈപുണ്യവും തൊഴിലും സുരക്ഷിതമാക്കാനും അവരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്താനും കഴിയും അതിനാൽ നിർമ്മാണ വ്യവസായത്തിൽ പ്രത്യേകിച്ച് അപകടസാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷയുടെയും പ്രതിരോധശേഷിയുടെയും സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ഇത് മാറേണ്ടതുണ്ട് അടിസ്ഥാന അപകട ഘടകങ്ങൾ കുറയ്ക്കുക ഇത് അപകടസാധ്യതയുള്ള ഒരു കെട്ടിടത്തിന്റെ കഥ മാത്രമല്ല എൻവയോണ്മെന്റ് മാനേജ്മെന്റിനെ കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഒരു വലിയ മേഖലയ്ക്ക് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ എങ്ങനെ കുറയ്ക്കാം കാരണം നിങ്ങൾക്കറിയാം ചിക്കൻ ആൻഡ് എഗ്ഗ് സ്റ്റോറി ആണ് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു എന്തെങ്കിലും വലുതായി സംഭവിക്കുന്നു എന്തെങ്കിലും വലുതായി സംഭവിക്കുന്നു അത് ചെറിയ കാര്യത്തെ ബാധിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പൊരുത്തപ്പെടുത്തലും ദുരന്തസാധ്യത കുറയ്ക്കലും തമ്മിൽ ബന്ധമുണ്ടോ അതിനാൽ അഞ്ചാമത്തെ തത്വം എല്ലാ തലങ്ങളിലും ഫലപ്രദമായ പ്രതികരണത്തിനായി ഡിസാസ്റ്റർ പ്രീപയേർഡ്നെസ്സ് ശക്തിപ്പെടുത്തുക അതിനാൽ ദുരന്ത നിവാരണത്തിലും പ്രതികരണത്തിലും പ്രാക്ടീഷണർമാർക്ക് ഒരു പ്രധാന പങ്കുണ്ട് കൂടാതെ ഏതെങ്കിലും ദുരന്തത്തിന്റെ മാനുഷികവും സാമ്പത്തികവുമായ ചിലവ് ഏത് തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണത്തിനും ചിലവ് വരും പ്രാദേശിക കഴിവുകൾ എങ്ങനെ ശേഖരിക്കാം എങ്ങനെ വിഭവങ്ങൾ സംഭരിക്കാം അതിനാൽ ഇവയെല്ലാം അതിനുള്ളിൽ വരുന്നു നമ്മൾ ബിൽറ്റ് എൻവയോണ്മെന്റിനെക്കുറിച്ചു സംസാരിക്കുമ്പോൾ ഗൈഡ് മനുഷ്യവാസ കേന്ദ്രങ്ങൾ കെട്ടിടം അടിസ്ഥാന സൌകര്യങ്ങൾ ഗതാഗതം ഊർജ്ജ ജലം മാലിന്യം അനുബന്ധ സേവനങ്ങൾ എന്നിവയെ പൊതുവായി പരാമർശിക്കുന്ന ബിൽറ്റ് എൻവയോണ്മെന്റ് വിവരിക്കുന്നു അതിൽ വാണിജ്യ സ്വത്ത് നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ പരിസ്ഥിതിയും അനുബന്ധ തൊഴിലുകളും അതിനാൽ നമ്മൾ പ്രൊഫഷണലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബിൽറ്റ് എൻവയോൺമെന്റ് പ്രൊഫഷണൽ എന്ന പദത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട് സർവിസുകൾ കൺസൾട്ടേഷൻ ആൻഡ് ബ്രീഫിംഗ് ഡിസൈൻ പ്ലാനിംഗ് പ്രോജക്ട് മാനേജ്മെന്റ് നടപ്പിലാക്കൽ എന്നിവയിൽ പ്രാഥമികമായി ബന്ധപ്പെട്ട പ്രാക്ടീഷണർമാർ എന്ന് നമ്മൾ പരാമർശിക്കുന്നു കൂടാതെ നിരീക്ഷണവും മൂല്യനിർണ്ണയ പഠനവും ഉൾപ്പെടെയുള്ള സാങ്കേതിക പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്ന ഒരാൾ ഒരു ക്ലയന്റ് നേരിട്ടോ പരോക്ഷമായോ ഒരു കരാറുകാരൻ മുഖേനയോ അവരെ നിയമിച്ചേക്കാം അതിനാൽ ഈ നിരീക്ഷണത്തിനും വിലയിരുത്തലുകൾക്കും പുറമെ അപകടങ്ങളിൽ നിന്നുള്ള അപകടസാധ്യതകൾ കുറയ്ക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന നയങ്ങൾ സ്റ്റാൻഡേർഡ്സ് കോഡുകൾ റെഗുലേറ്ററി ഫ്രെയിംവർക്സ് എന്നിവയുടെ രൂപകൽപ്പനയിലും നടപ്പാക്കലിലും അവർ വളരെയധികം ശ്രദ്ധാലുക്കളാണ് പരിശീലനവും പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഗവേഷണവും ഉപയോഗിച്ച് അവർ എങ്ങനെ അറിവ് പ്രചരിപ്പിക്കുന്നു എന്നതിന് പുറമെ ഇത് എൻവയോണ്മെന്റ്പ്രാക്ടീഷണർമാർ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നതും ശ്രദ്ധേയമാണ് നമുക്ക് ഒരു കൂട്ടം വൈദഗ്ധ്യമുള്ള സർവേയർമാർ എഞ്ചിനീയർമാർ ആർക്കിടെക്റ്റുകൾ തീർച്ചയായും വാസ്തുവിദ്യാ തൊഴിലിൽ നമുക്ക് നിർമ്മാതാവും ക്ലയന്റും മറ്റൊരാളുണ്ട് എന്നാൽ ഒരു ദുരന്ത സന്ദർഭത്തിൽ അത് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു അതിനാൽ ഏത് വൈദഗ്ധ്യം ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എന്നതാണ് പ്രധാന ചോദ്യം ഈ മുഴുവൻ ഗൈഡും സംസാരിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണിത് അതിനാൽ ദുരന്തനിവാരണത്തെ മനസ്സിലാക്കുന്ന പ്രക്രിയയെ ഒരാൾക്ക് എങ്ങനെ കാണാമെന്ന് ടീം മനസ്സിലാക്കി അവർ 7 ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞു റിസ്ക് ആൻഡ് വൾനറബിലിറ്റി അസ്സെസ്സ്മെന്റ് റിസ്ക് റീഡക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ ഡിസാസ്റ്റർ പ്രിപ്പയേറെഡ്നെസ്സ് ആൻഡ് പ്രീ ഡിസാസ്റ്റർ പ്ലാനിംഗ് എമർജൻസി റിലീഫ് ഏർലി റിക്കവറി ആൻഡ് ട്രാന്സിഷൻ റീകൺസ്ട്രക്ഷൻ പോസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഡെവലൊപ്മെന്റ് റിവ്യൂ ആൻഡ് ഓൺഗോയിങ് റീഡക്ഷൻ എന്നിവയാണ് അവ അതിനാൽ നമ്മൾ അവിടെ നിന്നാണ് സംസാരിക്കുന്നത് നമ്മൾ ഒരു രേഖ വരയ്ക്കുന്നു അതിനാൽ ഇത് മുമ്പും ശേഷവും പിന്നീട് ദീർഘകാലവുമാണ് അതിനാൽ ദുരന്തത്തിന് മുമ്പുള്ള ദുരന്തസമയത്ത് ദുരന്താനന്തര പ്രക്രിയയെ അവർ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ് അതിനാൽ ആ പ്രക്രിയ അവർ തരംതിരിച്ചു അതിനാൽ ഒരു ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മന്റ് ആൻഡ് റെസ്പോൺസ് ആഘാതത്തിൽ നിന്ന് എങ്ങനെ നീങ്ങുന്നു എന്ന ആശയപരമായ ധാരണയാണ് ഒരു ചട്ടക്കൂട് മനസ്സിലാക്കിയിരിക്കുന്നത് അവ സുരക്ഷിതമാക്കുക അവശിഷ്ടങ്ങളും വെള്ളവും വൃത്തിയാക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ഭക്ഷണം എന്നിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മാത്രം നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഉടനടി ഉടനടി പ്രതികരണമായി പിന്നെ ക്രമേണ അവർ എങ്ങനെ ഉപജീവനമാർഗങ്ങൾ സുരക്ഷിതമാക്കുന്നു അല്ലെങ്കിൽ അവർ എങ്ങനെ അവരുടെ ജോലികളിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പരിവർത്തനത്തിൽ താൽക്കാലികമായി നേരത്തെയുള്ള വീണ്ടെടുക്കൽ നൽകാൻ കഴിയും പിന്നെ ഒരാൾക്ക് റീകൺസ്ട്രക്ക്ഷൻ ഫേസിലേക്ക് നോക്കാം അവിടെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലൊപ്മെന്റ് എങ്ങനെ സമന്വയിപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഒരാൾ ഡിസാസ്റ്റർ പ്രീവെൻഷനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും നോക്കേണ്ടത് അതിനാൽ നിങ്ങൾ അത് സൃഷ്ടിക്കേണ്ടതുണ്ട് കാരണം ഇത് വീണ്ടും ആവർത്തിക്കാം കാരണം ഒരേ സംഭവം വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് സംഭവിക്കാം അതിനാൽ ഒരാൾക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ ആസൂത്രണം ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഈ അപകടസാധ്യതകൾ പിന്നീട് കുറയ്ക്കാനാകും അതിനാൽ ദുർബലരായ കമ്മ്യൂണിറ്റികളുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും കൂടുതൽ അപകടസാധ്യതകൾ കുറയ്ക്കുന്നതിന് ദുരന്തനിവാരണ പ്രക്രിയയെ അറിയിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് അവിടെയാണ് അതിനാൽ ഇവിടെ ചക്രം യഥാർത്ഥത്തിൽ കാലക്രമേണ ഉരുത്തിരിയുന്നത് കാണിക്കുകയും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സുസ്ഥിര വികസനം കൈവരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഡെവലൊപ്മെന്റ് കൈവരിക്കണമെങ്കിൽ അപകടസാധ്യത കുറയ്ക്കാനും ശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്ന ദുരന്തത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദുരന്ത നിവാരണ ലക്ഷ്യത്തിലേക്കുള്ള പ്രാദേശിക സമൂഹങ്ങളുടെ പ്രതിരോധം അതിനാൽ അവിടെയാണ് നിങ്ങളുടെ പരിശീലനം എല്ലാ കപ്പാസിറ്റി ബിൽഡിംഗും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റികളെ കൂടുതൽ സഹായിക്കാൻ കഴിയും അതിനാൽ ഈ 7 ഘട്ടങ്ങളും കാലക്രമേണ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് തുടർന്ന് 4 വ്യത്യസ്ത പ്രൊഫഷണലുകൾ ആർക്കിടെക്റ്റുകൾ സർവേയർമാർ പ്ലാനർമാർ എഞ്ചിനീയർമാർ ഇത് ഒരുതരം ഫ്രെയിം വർക്ക് ആണ് അവർ മുഴുവൻ ഗൈഡും വിവരിക്കാൻ ശ്രമിക്കുന്നു ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ പറയാം റിസ്ക് ആൻഡ് വാൾനറബിലിറ്റി അസ്സെസ്സ്മെന്റിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിലവിലുള്ളതും ഭാവിയിലെതുമായ അപകടസാധ്യതകളുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും കുറിച്ച് ഇതിന് സംസാരിക്കാനാകും നമ്മൾ ഏതെങ്കിലും ഭൂകമ്പങ്ങൾ പ്രവചിക്കുന്നുണ്ടോ ഒരു സുനാമി പ്രവചിക്കുന്നുണ്ടോ ഈ പ്രക്രിയയിൽ ഒരു ഉരുൾപൊട്ടൽ പ്രവചിക്കുകയാണോ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇവയാണ് ആ പ്രക്രിയയിൽ ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങി യഥാർത്ഥത്തിൽ എവിടെയാണ് സൌകര്യമൊരുക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ മോഡലിംഗ് സാറ്റലൈറ്റ് ഇമേജ് ജിഐഎസ് ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഉപയോഗിക്കാം അത് കമ്മ്യൂണിറ്റികളുടെ അറിവും അപകടസാധ്യതയെക്കുറിച്ചുള്ള അവരുടെ അറിവും നേരിടാനുള്ള കഴിവും പങ്കാളിത്തമാകാം അതിനാൽ ഇവയെല്ലാം റിസ്ക് ആൻഡ് വാൾനറബിലിറ്റി അസ്സെസ്സ്മെന്റിൽ വരും ദുരന്തങ്ങളുടെ സാമൂഹ്യകാരണങ്ങൾ നോക്കിയാൽ ദൈവം പ്രകൃതിദത്തമായ ഒരു പരിസ്ഥിതി നൽകിയിരിക്കുന്നു പിന്നെ ഈ എൻവയോണ്മെന്റ് എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടു എന്ന് നോക്കിയാൽ അത് വിതരണം ചെയ്യപ്പെടുന്നു അത് സ്ഥലപരമായി വ്യത്യസ്തമാണ് ഇത് അവസരങ്ങളുടെയും അപകടങ്ങളുടെയും അസമമായ വിതരണമാണ് തെക്കേ അമേരിക്കയിൽ അവർക്ക് സമ്പന്നമായ സ്വർണ്ണ ഖനികളുണ്ട് പക്ഷേ അവർക്ക് ചില ദുരന്തബാധിത പ്രദേശങ്ങളുണ്ട് അതുപോലെ രാജ്യത്തിന്റെ മറ്റ് ചില ഭാഗങ്ങളിൽ അവർക്ക് ഒന്നുമില്ല പക്ഷേ അവർക്ക് വിഭവങ്ങൾ വളരെ കുറവാണ് അതിനാൽ അവരുടെ നല്ല അവസരങ്ങളെയും അപകടങ്ങളെയും കുറിച്ച് വ്യക്തമായും സംസാരിക്കുന്നു തുടർന്ന് ഈ സാമൂഹിക പ്രക്രിയ അസമമായ പ്രവേശനം നിർണ്ണയിക്കുന്നു ഉദാഹരണത്തിന് ലിംഗഭേദം സുനാമി വീണ്ടെടുക്കൽ സമയം പോലും നീന്താൻ കഴിയാത്തതിനാൽ സ്ത്രീകളിൽ പലരും മരിച്ചതായി നിങ്ങൾ ശ്രദ്ധിച്ചു പടിഞ്ഞാറൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സാഹചര്യമായിരിക്കാം കാരണം അവർക്ക് നീന്താൻ അറിയാവുന്ന സ്ത്രീകൾ അവരെ സ്കൂളിൽ പഠിപ്പിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ വൻതോതിൽ ഉള്ളതിനാൽ സൌദിയിലും നിങ്ങൾ ഇതേ കാര്യം ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ അവരുടെ വൈദഗ്ധ്യ വ്യത്യാസം വളരെ വലുതാണ് അതിനാൽ ആ രീതിയിൽ വ്യത്യസ്ത അവസരങ്ങൾ ചില ഉറവിടങ്ങളിലേക്കുള്ള വ്യത്യസ്ത ആക്സസ് വ്യത്യസ്ത ക്ലാസ് വ്യത്യസ്ത ലിംഗഭേദം വൈകല്യം എന്നിവയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നു വികലാംഗരുടെ കാര്യമോ അഭയാർത്ഥി ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്തൊക്കെ സൌകര്യങ്ങളാണ് നമ്മൾ നൽകുന്നത് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള സാമൂഹിക വ്യവസ്ഥകളും അധികാര ബന്ധങ്ങളും രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളും അതിനാൽ ഈ മുഴുവൻ ചാർട്ടും വ്യത്യസ്ത അളവുകൾ അപകടസാധ്യതകൾക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ സ്ഥിതിവിവരക്കണക്ക് വശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എപ്പിഡെമിയോളജി ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിനുള്ള CRED സെന്റർ ഫോർ റിസർച്ച് ഇൻ എപിഡെമിയോളജി ഡിസാസ്റ്റെർസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ഷാമങ്ങൾ ഇവ മന്ദഗതിയിലുള്ള തുടക്കവും ദ്രുതഗതിയിലുള്ള തുടക്കവുമാണെന്ന് നിങ്ങൾ കാണും ക്ഷാമം അതൊരു വരൾച്ചയാണ് 86 9 മരണമാണ് എന്നാൽ പെട്ടെന്നുള്ള ദുരന്തം നിങ്ങൾ കാണുന്നത് വളരെ നിസ്സാരമായാണ് അതുപോലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ മരണങ്ങൾ 270 ദശലക്ഷവും 62 4 ഇതേപ്പറ്റി സംസാരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ഡാറ്റ പറയുന്നത് ഇപ്പോൾ ടൂളുകളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഒരു സർവേയർക്ക് സ്വാഭാവികമായും എങ്ങനെ ചെയ്യാൻ കഴിയും ജിയോമാറ്റിക്സ് ആളുകൾക്ക് അപകടസാധ്യതയുള്ള മാപ്പിംഗ് വികസിപ്പിക്കാൻ കഴിയും ലാൻഡ്സൈഡ് സാധ്യതയുള്ള പ്രദേശമാണ് ഇത് ജോമെട്രിക്സ് ഡിപ്പാർട്മെന്റിൽ നിന്നുള്ള സഹായം ഉപയോഗിച്ചു എന്റെ പിഎച്ച് ഡി വിദ്യാർത്ഥി വികസിപ്പിച്ച ഒരു ഭൂപടമാണ് റിസ്ക് റീഡക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ ഇവിടെ നമ്മൾ ഏതുതരം തന്ത്രങ്ങളെക്കുറിച്ചോ പോളിസി ഓറിയന്റേഷനെക്കുറിച്ചോ ഇതിനകം അറിയാവുന്ന അപകടസാധ്യതകളിലേക്കുള്ള അപകടസാധ്യത കുറയ്ക്കുന്നതിന് നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താം കൂടാതെ ദുർബലമായ ഘടനകളെ എങ്ങനെ ശക്തിപ്പെടുത്താം ഉയർന്ന കെട്ടിട പ്രവർത്തനങ്ങൾ തടയുക എന്നിവയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അപകടസാധ്യത അതിനാൽ ആ പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ തടയാനും ആസ്തികൾ തുടർച്ച കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള ദുരന്ത തയ്യാറെടുപ്പുകൾ എന്നിവ കൈകാര്യം ചെയ്യാനും പരിപാലിക്കാനും കഴിയും അതിനാൽ ഇവയെല്ലാം റിസ്ക് റീഡക്ഷൻ ആൻഡ് മിറ്റിഗേഷന് കീഴിൽ വരും നമ്മൾ ബിൽഡിംഗ് റെഗുലേഷനുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തടയണമെങ്കിൽ വാസ്തവത്തിൽ ബിൽഡിംഗ് കോഴ്സിനെക്കുറിച്ചാണ് കാസിഡി ജോൺസൺ സംസാരിച്ചത് പ്രത്യേകിച്ച് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ ബിൽഡിംഗ് കോഴ്സിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് അതിനാൽ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഗ്ലോബൽ അസ്സെസ്സ്മെന്റ് റിപ്പോർട്ടുണ്ട് ദുരന്തസാധ്യതയ്ക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ഭൂവിനിയോഗ ആസൂത്രണത്തിനും നിർമ്മാണത്തിനുമുള്ള നിയന്ത്രണ ചട്ടക്കൂടുകളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഇത് പലപ്പോഴും ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള അനൌപചാരിക സെറ്റിൽമെന്റുകളെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് കെട്ടിടത്തെയും നിർമ്മാണ നിലയെയും കുറിച്ച് സംസാരിക്കുന്നു ഇത് കൂടുതൽ ആസൂത്രണവും ഭൂമി പരിപാലനവുമാണ് അതിനാൽ ഇവ രണ്ട് വ്യത്യസ്ത സ്കെയിലുകളാണ് അത് മറയ്ക്കാൻ ശ്രമിക്കണം ഡിസാസ്റ്റർ പ്രിപയേർഡ്നെസ്സ് ആൻഡ് പ്രീ ഡിസാസ്റ്റർ പ്ലാനിംഗ് അതിനാൽ നമ്മൾ എന്തൊക്കെ കഴിവുകളാണ് നൽകേണ്ടതെന്നും അതിനായി എങ്ങനെ തയ്യാറെടുക്കണമെന്നും നിങ്ങൾക്കറിയാമെന്നും ദുരന്തത്തിന് ശേഷം അടിയന്തര ജലവിതരണത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഹുദ്ഹുദ് ചുഴലിക്കാറ്റിനെ തുടർന്ന് റോഡുകൾ വെട്ടിപ്പൊളിച്ചതും തീരപ്രദേശമായതും ദുരിതബാധിതരായ പലർക്കും കുടിവെള്ളം പോലും ലഭിച്ചിട്ടില്ലെന്നതും നിങ്ങളിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല കണക്ടിവിറ്റി പ്രശ്നങ്ങൾ കാരണം അവർക്ക് ചില അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ല അതുപോലെ കാശ്മീർ വെള്ളപ്പൊക്കത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം അത് വ്യത്യസ്തമായ ഒരു ദുരന്തത്തിന് കാരണമായി പകർച്ചവ്യാധികളും പ്രാദേശിക രോഗങ്ങളും കാരണം വെള്ളം കുറയുകയും വിവിധ കൊതുകുകൾ പ്രജനനം നടത്തുകയും അത് വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എമർജൻസി റിലീഫിൽ ലോജിസ്റ്റിക് പ്ലാനിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ സാമഗ്രികൾ താത്കാലിക ടെന്റുകൾ ഭക്ഷണം പാർപ്പിടം എന്നിവ വാങ്ങാം അവ എങ്ങനെ കൊണ്ടുപോകാം കന്നുകാലികൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാം എന്നിവ നോക്കേണ്ടതുണ്ട് അതിനാൽ ഈ എല്ലാ വശങ്ങളും ദുരിതാശ്വാസ ഷെൽട്ടറുകളും പാർപ്പിട സാമഗ്രികളും അതിനാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവയെ എങ്ങനെ സംരക്ഷിക്കാം ഏതുതരം താത്കാലിക ഘടനകളാണ് നമുക്ക് സ്ഥാപിച്ചിരിക്കുന്നത് അതിന് എത്ര സമയമെടുക്കും ഇതെല്ലാം തയ്യാറെടുപ്പാണ് പ്രോജക്റ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മന്റ് അതിനാൽ വ്യത്യസ്ത അഭിനേതാക്കൾ സ്ഥലത്തേക്ക് വരുന്നതിനാൽ തന്ത്രപരമായ പ്രവർത്തന പദ്ധതിയും ഈ അടിയന്തര ദുരിതാശ്വാസ സാഹചര്യങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതും ഇവിടെയാണ് ഭാവിയിലെ അപകടസാധ്യതകൾക്കായി അവർ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണം ജിഐഎസ് അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റാബേസ് ഉപയോഗിച്ച് സർവേയർമാർക്ക് തയ്യാറാക്കാം റിലീഫ് ഘട്ടത്തിൽ നിന്ന് നീങ്ങുന്ന ആദ്യകാല വീണ്ടെടുക്കലിലും പരിവർത്തനത്തിലും ഓഡിറ്റുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ ഓഡിറ്റ് പ്രക്രിയയെക്കുറിച്ച് ഒരാൾക്ക് എങ്ങനെ ഒരു സർവേ നടത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ആർക്ക് എങ്ങനെ സൌകര്യമൊരുക്കാം ഈ ഗ്രാമത്തിന് എത്ര വീടുകൾ ഏത് ഗ്രാമത്തിന് മുൻഗണന നൽകണം അതിനാൽ ഈ ഭാഗങ്ങളെല്ലാം നൽകേണ്ടതുണ്ട് ഇവിടെയാണ് നമ്മൾ കോമ്പൻസേഷൻ പാക്കേജുകൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് മാപ്പിംഗിനൊപ്പം റാപിഡ് മാപ്പിംഗ് എക്സർസൈസുകൾ ഭവന ആവശ്യങ്ങൾ ഭൂമി സർവേ ഏറ്റെടുക്കൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും താൽക്കാലിക അഭയം നൽകണമെങ്കിൽ പ്രധാന ഭാഗം ഇവിടെയാണ് നിങ്ങൾ എവിടെയാണ് നൽകുന്നത് എവിടെയാണ് സ്ഥലം ഏത് സുരക്ഷിതമായ സ്ഥലമാണ് അത് എങ്ങനെ ചർച്ച ചെയ്യാം അതിനാൽ ഭൂമി സർവേയിലും ഏറ്റെടുക്കലിലും ഇതെല്ലാം വരുന്നു ഭവന ആവശ്യങ്ങൾ എത്ര ആളുകൾക്ക് അല്ലെങ്കിൽ മുഴുവൻ ഗ്രാമത്തിനും അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ച ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച അല്ലെങ്കിൽ പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ച ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം നൽകിയിട്ടുണ്ട് അതിനാൽ ഈ മുഴുവൻ ഓഡിറ്റ് പ്രക്രിയയും തുടരുന്നു അവിടെയാണ് ഒരാൾ നോക്കേണ്ടത് ഉദാഹരണത്തിന് വലതുവശത്ത് ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നു നഷ്ടപരിഹാര പാക്കേജിന്റെ ഭാഗമായ നിർമ്മാണ സാമഗ്രികളും സാങ്കേതികവിദ്യയും തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ആർക്കിടെക്റ്റുകൾ ഉപദേശിക്കും അതുപോലെ സർവേയർമാർ സാമ്പത്തിക നഷ്ടപരിഹാര പാക്കേജിനെക്കുറിച്ച് സംസാരിക്കുന്നു ഓരോ കുടുംബത്തിനും പണച്ചെലവിന്റെ തകർച്ചയിൽ ഉപദേശം നൽകുന്നു അതിനാൽ ഒരു യൂണിറ്റിന് ഇത്രയും ചെലവ് ഇത്രയധികം ഒരാൾ നോക്കേണ്ടതുണ്ട് കാരണം മൂല്യനിർണ്ണയവുമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മൂല്യനിർണ്ണയത്തിന് കൂടുതൽ കാര്യങ്ങളുണ്ട് ഗുണപരമായ ചെലവിനെക്കുറിച്ചും വ്യക്തിഗത സെറ്റിൽമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന പ്ലാനർമാർ അതിനാൽ അവർ മൊത്തത്തിലുള്ള പ്രക്രിയയും വ്യക്തിഗതവും നോക്കുന്നു ഇവിടെ അവർ നിർമ്മാണ രീതികളെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന രീതികൾ പ്രീഫാബ് രീതികൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ചില പരമ്പരാഗത രീതികൾ എന്നിവ നിങ്ങൾക്കറിയാം അതിനാൽ ഞാൻ ചുരുക്കമായി ഇവിടെയും ഇവിടെയും സ്പർശിക്കുന്നു അതുപോലെ ആർക്കിടെക്റ്റുകൾ സാമൂഹിക വികസന ഏജൻസികളുമായി ചേർന്ന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുമായും വീടുമായും സർവേകൾ നടത്തുന്നു കാരണം ആ ആവാസ മാപ്പിംഗ് എക്സ്സർസൈസ് ഒരാൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബെന്നി കുര്യാക്കോസും സംഘവും തരംഗമ്പാടിയിലെന്നപോലെ അവർ സമൂഹത്തോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത് സുനാമി വന്നപ്പോൾ പോലും തങ്ങൾക്ക് നാശനഷ്ടമുണ്ടായ പ്രദേശം പോലും ലഭിച്ചില്ലെന്ന് അവർ മനസ്സിലാക്കി ഞാൻ ഉദ്ദേശിച്ചത് നിലവിലുണ്ടായിരുന്നു അതിനാൽ അത് ആവശ്യമാണ് കമ്മ്യൂണിറ്റി ആളുകളെ ഉൾക്കൊള്ളുന്നു അതിനാൽ ആർക്ക് എന്താണ് വേണ്ടത് ചില സമയങ്ങളിൽ രേഖകളൊന്നും അവശേഷിക്കുന്നില്ല അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ റെക്കോർഡ് ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണ് ഒരു സർവേയർ നോക്കുന്നത് തുടർന്ന് അവർ പങ്കാളിത്ത സർവേകൾ നോക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ചില ഓവർലാപ്പ് കാണാൻ കഴിയും കൂടാതെ എഞ്ചിനീയർമാർ പ്രധാന സുപ്രധാന സേവനങ്ങളുടെ പ്രവേശനത്തെയും വ്യവസ്ഥയെയും കുറിച്ച് സംസാരിക്കുന്നു ജലവിതരണമോ ശുചിത്വമോ എങ്ങനെ നൽകണം അതിനാൽ കൺസെപ്റ്റ് പ്ലാനർമാരിൽ ഭൂമി സർവേകൾ നടത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ അവർ പ്ലാനർമാർ ജലശാസ്ത്രജ്ഞർ സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഒരു വെള്ളപ്പൊക്ക മാപ്പുകൾ വികസിപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളപ്പൊക്ക ഭൂപടത്തിന്റെ ഡാറ്റ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും അതിനാൽ ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് ആളുകൾ നിങ്ങളോട് പറയും അവർ ചെയ്ത ഡാറ്റ എന്താണെന്നും നിങ്ങളുടെ മോഡലിംഗിൽ അത് എങ്ങനെ ഉൾപ്പെടുത്താമെന്നും അത് എങ്ങനെ വിവരദായകമായ തീരുമാനമെടുക്കൽ നിലയായിരിക്കുമെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഈ മുഴുവൻ പ്രക്രിയയ്ക്കും ഒരു മൾട്ടി ഡിസിപ്ലിനറി ഉണ്ട് ഉദാഹരണത്തിന് ഹുദ്ഹുദ് ചുഴലിക്കാറ്റിന്റെ ഉടനടി ആഘാതം നിങ്ങൾക്ക് കാണാൻ കഴിയും നാശനഷ്ടങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് കാണാം കൂടാതെ മുഴുവൻ സ്ഥിതിവിവരക്കണക്കുകളും ജില്ലാ കളക്ട്രേറ്റിൽ വരുന്നു അതിനാൽ ഇതാണ് നമ്മുടെ ആവശ്യങ്ങൾ വിലയിരുത്തുന്നത് ഉദാഹരണത്തിന് ഏതൊക്കെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അവ ഭാഗികമായി തകർന്നത് അറ്റകുറ്റപ്പണികൾ നടത്താവുന്നവ എന്നിവയും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് നഷ്ടപരിഹാര പാക്കേജിൽ ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നമ്മൾ നിങ്ങൾക്ക് 5000 രൂപ നൽകുന്നു എന്നാൽ ഇതിന് 5000 രൂപ ചിലവ് മതിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ 5000 തികയില്ലെങ്കിലും ഇവരെല്ലാം ഇപ്പോഴും അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം ഇവിടെയാണ് ആവശ്യം മനസ്സിലാക്കുന്നതിൽ എന്തോ പിഴവ് സംഭവിക്കുന്നത് മൂന്ന് കുടുംബങ്ങൾ ഇപ്പോഴും ഒരേ വീട്ടിൽ താമസിക്കുന്നു കാരണം തുച്ഛമായ തുക എന്തുതന്നെയായാലും നിരവധി കാരണങ്ങളോ രാഷ്ട്രീയ കാരണങ്ങളോ പ്രാദേശിക കാരണങ്ങളോ ഉണ്ടാകാം പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം അതുപോലെ പരിവർത്തനത്തിന്റെ ആദ്യകാല വീണ്ടെടുക്കൽ ഭൌതിക ആസൂത്രണം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തകർന്ന കുന്നിൻ പ്രദേശങ്ങളുണ്ടെങ്കിൽ സംരക്ഷണ ഭിത്തികൾ എങ്ങനെ നിർമ്മിക്കാം ഇവയും ട്രാൻസിഷൻ ഷെൽട്ടറുകളും എങ്ങനെ പുതുക്കാം അവരുടെ സ്ഥിരമായ ഷെൽട്ടർ രൂപകൽപന ചെയ്യുന്നതുവരെ കുറച്ച് മാസങ്ങൾ കൂടി താമസിക്കേണ്ടതുണ്ട് സ്വത്ത് അവകാശങ്ങളും ക്ലെയിമുകളും ഭൂമിയുടെ അതിരുകൾ കഡാസ്ട്രൽ സർവേ ഇത് നഷ്ടപ്പെട്ടതായി ആർക്കെങ്കിലും അവകാശപ്പെട്ട സാമ്പത്തിക ക്ലെയിമുകൾ അതിന്റെ ഒരു ഇൻഷുറൻസ് ഭാഗമുണ്ട് അതിനാൽ ഈ മുഴുവൻ പ്രക്രിയയും എടുക്കും കൂടാതെ വാസ്തുശില്പികൾ വാസസ്ഥലങ്ങളുടെയും മറ്റ് സാധാരണ പ്രധാന കെട്ടിടങ്ങളുടെയും കാൽപ്പാടുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും പ്രാദേശിക ഏരിയ ലേഔട്ടുകളും സൈറ്റ് ആസൂത്രണവും ഉപേക്ഷിച്ച് വരുമാനം പരിഗണിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ അവർ കമ്മ്യൂണിറ്റിയുമായി ഇടപഴകണം തുറന്നതും ബിൽഡ് സ്പേസുകളും എങ്ങനെ നെറ്റ്വർക്കുചെയ്തുവെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സർവേയർമാർ വിശദമായ കോണ്ടൂർ ലെവൽ മാപ്പിംഗ് നൽകുന്നു ഇവിടെയാണ് അവർ ഗതാഗത സൌകര്യങ്ങളെക്കുറിച്ചും പ്ലാനർമാരെക്കുറിച്ചും സേവനങ്ങളുടെ പ്രധാന ശൃംഖലകളെക്കുറിച്ചും സംസാരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഇൻപുട്ട് നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് അവിടെയാണ് അവർ സിവിൽ നോക്കേണ്ടത് പ്രവർത്തിക്കുന്നു എസ്റ്റിമേഷനുകൾ ചെലവ് കരാർ ടെൻഡറിംഗ് പ്രക്രിയ എന്നിവ നിങ്ങൾക്കറിയാം അങ്ങനെയാണ് സർവേയറും എഞ്ചിനീയർമാരും പരസ്പരം ഏകോപിപ്പിക്കുന്നത് അതുപോലെ തന്നെ പുനർനിർമ്മാണ ഘട്ടത്തിൽ നമുക്ക് ഹൌസിംഗ് ബിൽഡിംഗ് ഡിസൈൻ ഉണ്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കൂടുതൽ ആർക്കിടെക്റ്റുകൾ അവർ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു മേൽനോട്ടവും അടിസ്ഥാന സൌകര്യങ്ങളും കെട്ടിട അതിർത്തികളും തമ്മിലുള്ള ഇന്റർഫേസ് പരിശീലനവും ഡെലിവറിയും നൽകുന്നു ചെലവ് കുറഞ്ഞ മാതൃകകളിൽ കമ്മ്യൂണിറ്റികളുടെ സംഭാവനയും മേൽനോട്ടം ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകൽ അടിസ്ഥാന സൌകര്യ ആസൂത്രണം നടപ്പാക്കൽ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശവും അതിനാൽ ബിൽറ്റ് ബാക്ക് ബെറ്റർ എന്നതിനർത്ഥം ഉയർന്ന നിലവാരത്തിലും സൌകര്യങ്ങളിലും അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ സേവനങ്ങൾ നൽകാനുള്ള അവസരമാണ് പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജം ജലഗതാഗതം മാലിന്യ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സംയോജിതമായി രൂപകൽപ്പന ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ഒരു പ്രധാന അവസരമാണ് പുനർനിർമ്മാണം സംയോജനത്തിന് നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതിനാൽ ദുരന്തം ഒരു സംഭവമായി ഞാൻ അർത്ഥമാക്കുന്നത് ദുരന്തമാണ് ഇത് മികച്ച രീതിയിൽ വീണ്ടെടുക്കാനുള്ള അവസരമായി കണക്കാക്കപ്പെടുന്നു മാലിന്യ സംസ്കരണം ഊർജ്ജം എന്നിവ എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതിനാൽ പരിശീലന പരിപാടികൾ ആസൂത്രണവും നടത്തിപ്പും കൂടാതെ തന്നിരിക്കുന്ന സെന്റ് ഭൂമി 15 സെന്റ് ഭൂമി നിങ്ങൾ എങ്ങനെ 300 വീടുകൾ നിർമ്മിക്കാൻ പോകുന്നു എത്രത്തോളം ഫലപ്രദമായി മുന്നോട്ട് പോകും എന്ന് നിർവ്വചിക്കുന്നു അതിനാൽ ഇവിടെയാണ് ആർക്കിടെക്റ്റ് വീണ്ടും സർവേയർമാരുമായി ഏകോപിപ്പിക്കേണ്ടത് കൂടാതെ ഒരു മാക്രോ ലെവൽ കോർഡിനേഷൻ ഉണ്ട് മൈക്രോ ലെവൽ കോർഡിനേഷൻ പ്രവർത്തിക്കുമ്പോൾ അവർ ഇന്റർഫേസ് ചെയ്യണം പോസ്റ്റ് റെകോൺസ്ട്രക്ക്ഷൻ ഡെവലൊപ്മെന്റ് റിവ്യൂ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് നിരീക്ഷണവും വിലയിരുത്തലും ഉണ്ട് ഇവിടെയുള്ള പ്രശ്നം ആളുകളുടെ എൻജിഒയുടെ നിർമ്മിതിയാണ് അവർ പോകുന്നു ആരാണ് അത് അവലോകനം ചെയ്യും അവരുടെ ഫലം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നു അവർ എങ്ങനെ അഭിമുഖീകരിച്ചു ഇവിടെയാണ് ഒരു ഫേസ് ടു ഫേസ് ഇന്റെറാക്ഷൻസ് നടക്കുന്നത് ആർക്കിടെക്റ്റ് സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം അവർ വരുത്തേണ്ട ക്രമാനുഗതമായ ഭേദഗതികൾ ഏതുതരം എങ്ങനെ ഒരു വികസന നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്നിവ അതുപോലെ തന്നെ പ്രോജക്റ്റ് മാനേജ്മെന്റ് കോസ്ററ് എഫക്റ്റീവ്നെസ്സിലും ഡെപ്ത് സർവീസിംഗിനെക്കുറിച്ചുള്ള സാമ്പത്തിക ഉപദേശത്തിലും പ്രവർത്തിക്കുന്നു അവർ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ ഏകോപിപ്പിക്കണം കൂടാതെ മെയിന്റനൻസ് ഉപദേശം അതിനാൽ ഹ്രസ്വവും ഇടത്തരവും ദീർഘകാലവുമായ മെയിന്റനൻസ് സ്ട്രാറ്റജികളും ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസ് ഉപദേശവും പുനർപരിശീലനവും നോക്കേണ്ടതുണ്ട് അതിനാൽ നാളെ ഏതെങ്കിലും ഏജൻസി ഒരു പ്രത്യേക റോഡ് വികസിപ്പിച്ചെടുത്താൽ 5 വർഷത്തിന് ശേഷം ആരാണ് ഉത്തരവാദികൾ ആകാൻ പോകുന്നത് അതിനാൽ ആ രീതിയിൽ നിങ്ങൾ പ്രകടനവും അതിന്റെ സുരക്ഷാ ഭാഗവും നോക്കേണ്ടതുണ്ട് ഒരു ഓഡിറ്റ് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ അവിടെയാണ് ഈ മുഴുവൻ പ്രക്രിയയും ആർക്കിടെക്റ്റുകൾ സർവേയർമാർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ പോകാം വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും സമയത്തിന്റെ ഏതൊക്കെ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും വിവിധ തൊഴിലുകൾ എന്തൊക്കെയാണെന്നും അവരുടെ ഓരോ ജോലിയുമായും അവർക്ക് എങ്ങനെ പരസ്പരബന്ധം പുലർത്താമെന്നും മനസ്സിലാക്കാൻ അത് തീർച്ചയായും നമ്മളെ സഹായിക്കും ഇത് നിങ്ങൾക്ക് സഹായകരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു